വെയ്റ്റഡ് ഗ്രാഫുകളിലേക്കും അരികുകളുമായി അവയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഗ്രാഫുകളിലേക്കും ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ തിരിക്കാം ഭാരം കുറഞ്ഞ ഗ്രാഫുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹ്രസ്വമായ പാതകൾ കണക്കുകൂട്ടുക എന്നതാണ് അതിനാൽ ഇതുവരെ കണ്ടത് അവലോകനം ചെയ്യാം അതിനാൽ ഞങ്ങൾ നോക്കാത്ത ഗ്രാഫുകളിലേക്ക് നോക്കുന്നു അത് വെർട്ടീസുകളുടെയും ഒരു കൂട്ടം അരികുകളുടെയും സെറ്റുകളാണ് ഇവിടെ ഓരോ അരികുകളും രണ്ട് വെർട്ടീസുകൾ തമ്മിലുള്ള കണക്ഷൻ മാത്രമാണ് അത്തരം ഗ്രാഫുകൾ പര്യവേക്ഷണം ചെയ്യുന്നതിനുള്ള രണ്ട് ചിട്ടയായ തന്ത്രങ്ങൾ ഞങ്ങൾ കണ്ടു വീതിയുടെ ആദ്യ തിരയൽ ആഴത്തിലുള്ള ആദ്യ തിരയൽ ഇപ്പോൾ അരികുകൾക്കായി ഞങ്ങൾ സമീപസ്ഥല പട്ടികകളുടെ പ്രാതിനിധ്യം ഉപയോഗിക്കുകയാണെങ്കിൽ ഇവ രണ്ടും ഗ്രാഫിന്റെ വലുപ്പത്തിൽ രേഖീയമായിരിക്കും തന്നിരിക്കുന്ന ശീർഷകത്തിൽ നിന്ന് ബിഎഫ്എസ് അല്ലെങ്കിൽ ഡിഎഫ്എസ് ഉപയോഗിച്ച് ഒരു ഗ്രാഫ് പര്യവേക്ഷണം ചെയ്യുമ്പോൾ ഈ ആരംഭ വെർട്ടെക്സിലേക്ക് ഏതെല്ലാം വെർട്ടീസുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തുന്നില്ലെന്ന് ഇപ്പോൾ ഞങ്ങൾ കണ്ടു ഞങ്ങൾ സന്ദർശിക്കുന്ന ഓരോ നോഡിന്റെയും രക്ഷകർത്താവ് പോലുള്ള അധിക വിവരങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ആരംഭ വെർട്ടക്സിലേക്കുള്ള പാത വീണ്ടെടുക്കാനും ഞങ്ങൾക്ക് കഴിയും വീതിയുടെ ആദ്യ തിരയൽ ഞങ്ങൾ നിരീക്ഷിച്ചു കാരണം ഇത് ലെയർ സ്ട്രാറ്റജി പ്രകാരം ലെയറാണെങ്കിൽ ആരംഭ ശീർഷകത്തിൽ നിന്നുള്ള അരികുകളുടെ എണ്ണമനുസരിച്ച് ഓരോ ശീർഷകത്തിലേക്കും ഏറ്റവും കുറഞ്ഞ ദൂരം കണ്ടെത്തുന്നു ആഴത്തിലുള്ള ആദ്യ തിരയൽ ഹ്രസ്വമായ പാത കണ്ടെത്തുന്നില്ലെങ്കിലും ഞങ്ങൾ സന്ദർശിച്ച ക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് മറ്റ് നിരവധി വിവരങ്ങൾ നൽകുന്നു അതിനാൽ പ്രീ പോസ്റ്റ് ഡിഎഫ്എസ് നമ്പറിംഗിന്റെ ട്രാക്ക് സൂക്ഷിക്കുന്നതിലൂടെ ഗ്രാഫിന്റെ സവിശേഷതകളുടെ ഘടന വീണ്ടെടുക്കാൻ ഞങ്ങൾക്ക് കഴിയും ഇപ്പോൾ അരികുകളിൽ ചിലവ് ചേർത്താൽ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾ നോക്കുന്നു ഇപ്പോൾ ആപ്ലിക്കേഷനെ ആശ്രയിച്ച് നിരവധി സ്വാഭാവിക വ്യാഖ്യാനങ്ങളുടെ ഈ വില ഉദാഹരണത്തിന് ഒരു ഗ്രാഫിന്റെ പ്രാരംഭ ഉദാഹരണത്തിൽ ഞങ്ങൾ ഒരു എയർലൈൻ റൂട്ടിംഗ് മാപ്പ് നോക്കുന്നു അതിനാൽ അത്തരമൊരു ഗ്രാഫിൽ എഡ്ജ് ഭാരം ഒരു എഡ്ജുമായി ബന്ധപ്പെട്ട ചെലവ് ഫ്ലൈറ്റിലെ ടിക്കറ്റ് സമ്മാനമായിരിക്കാം അല്ലെങ്കിൽ ഹൈവേകളുടെ ഒരു ശൃംഖലയിലെ അരികുകൾ റോഡുകളെ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ ഒരാൾ നൽകേണ്ട ടോളിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ചിലവ് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കാം റോഡിന്റെ ഒരു പ്രത്യേക വിഭാഗത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റെയിൽവേ ശൃംഖല ഉണ്ടെങ്കിൽ അത് രണ്ട് സ്റ്റേഷനുകൾ തമ്മിലുള്ള ദൂരത്തെയോ ഒരു നഗരത്തിന്റെ ലളിതമായ ട്രാഫിക് റോഡ് മാപ്പിനെയോ പ്രതിനിധീകരിക്കുന്നു തിരക്കേറിയ സമയങ്ങളിൽ രണ്ട് കവലകൾക്കിടയിൽ എടുക്കുന്നതൊഴികെ ഒരാൾക്ക് എത്ര സമയമെടുക്കുമെന്ന് ഇത് പ്രതിനിധീകരിക്കുന്നു അതിനാൽ പൊതുവേ വെയ്റ്റഡ് ഗ്രാഫ് ഒരു സാധാരണ ഗ്രാഫിനൊപ്പം ഒരു അധിക ഫംഗ്ഷനോടൊപ്പം ഓരോ എഡ്ജിന്റെയും വില നമ്മോട് പറയുന്നു ഇതിനെ ഒരു വെയിറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത് പതിവാണ് അതിനാൽ ഭാരോദ്വഹനം ഓരോ അരികിലും E ചില സംഖ്യകൾ നിർണ്ണയിക്കുന്നു അതിനാൽ ഇവ ചില യഥാർത്ഥ സംഖ്യകളെക്കുറിച്ച് ചിന്തിക്കുന്നു അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് v 0 മുതൽ vn ലേക്ക് ഒരു പാത ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് v 0 മുതൽ vn ലേക്ക് ഒരു പാത ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് n അരികുകളുടെ ഒരു ശ്രേണി ഉണ്ട് v 0 v 1 v 1 v 2 ഇവയിൽ ഓരോന്നും ഞങ്ങളുടെ വെയ്റ്റഡ് ഗ്രാഫിന് ഒരു ഭാരം ഉണ്ടാകും കൂടാതെ സ്വാഭാവികമായും ചെയ്യേണ്ടത് ഈ ഭാരങ്ങളുടെ വില കൂട്ടുക എന്നതാണ് അതിനാൽ ഇവ ദൂരങ്ങളാണെന്ന് കരുതുക ആകെ ദൂരം ഈ പാത പിന്തുടരണം ഞങ്ങൾ ഒരു ആകാൻ ആഗ്രഹിക്കുന്നു ദൂരങ്ങളുടെ ആകെത്തുകയാണ് ഇത് ഫ്ലൈറ്റുകളുടെ ഒരു ശ്രേണിയാണെങ്കിൽ ഒരു ടിക്കറ്റിനായി ഞങ്ങൾ നൽകുന്ന ആകെ ചെലവ് ചിലവിന്റെ ആകെത്തുകയാണ് അതിനാൽ ഓരോ പാതയിലും തൂക്കത്തിന്റെ ആകെത്തുക ചേർത്തുകൊണ്ട് ഞങ്ങൾ അരികുകളിൽ നിന്ന് പാതകളിലേക്ക് ഭാരം വിപുലീകരിക്കും ഇപ്പോൾ ഞങ്ങൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വാഭാവിക പ്രശ്നം നൽകിയ ജോഡി മെട്രിക്സുകൾക്കിടയിലെ ഏറ്റവും ചെറിയ പാത കണ്ടെത്തുക എന്നതാണ് v 0 മുതൽ v n വരെ പോകാൻ എനിക്ക് ഏറ്റവും കുറഞ്ഞ ചിലവ് അതാണ് അതിനാൽ ഞങ്ങളുടെ ചിലവ് അരികുകളുടെ എണ്ണത്തിലാണെങ്കിൽ ആ വീതി ആദ്യ തിരയൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് ഞങ്ങൾ മുമ്പ് കണ്ടു ഇത് പറയാനുള്ള മറ്റൊരു മാർഗ്ഗം ഓരോ അരികുകൾക്കും ഒരേ വില 1 അല്ലെങ്കിൽ ഏതെങ്കിലും നിശ്ചിത സംഖ്യ ഉണ്ടെന്ന് നമുക്ക് can ഹിക്കാം അതിനാൽ ഞാൻ കൂടുതൽ അരികുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ചെലവ് ഞങ്ങൾക്ക് അരികുകളുടെ എണ്ണത്തിന് ആനുപാതികമാണ് പക്ഷേ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ ചെലവ് അനിയന്ത്രിതമായിരിക്കാം തുടർന്ന് ആദ്യത്തെ തിരയൽ പ്രവർത്തിക്കുന്നില്ല ഉദാഹരണത്തിന് ഈ ഉദാഹരണത്തിൽ 1 നും 3 നും ഇടയിൽ ഒരു നേരിട്ടുള്ള എഡ്ജ് ഉണ്ടെന്ന് ഞങ്ങൾ കാണുന്നു പക്ഷേ അതിന്റെ ഭാരം 80 ആണ് കൂടാതെ 1 2 3 ൽ നിന്ന് ഒരു ചെറിയ ചെലവ് പാത 2 ചേർത്ത് നമുക്ക് ചെയ്യാം അതിനാൽ ഇതിന് ഉണ്ട് രണ്ട് അരികുകൾ നിങ്ങൾക്ക് 10 പ്ലസ് 6 ആവശ്യമുള്ള ആകെ ചെലവ് അതായത് 16 ആണ് അതിനാൽ ഭാരം കൂടിയ ഗ്രാഫിലെ ഏറ്റവും ചെറിയ പാത അരികുകളുടെ എണ്ണത്തിൽ ഹ്രസ്വമായിരിക്കേണ്ടതില്ല ഞങ്ങൾ സംസാരിക്കുന്നത് അരികുകളിലുള്ള ചെലവിന്റെ ആകെത്തുകയെയാണ് അതിനാൽ അരികുകളുടെ എണ്ണത്തിൽ ഞങ്ങൾക്ക് ഒരു നീണ്ട പാത ഉണ്ടായിരിക്കാം പക്ഷേ മൊത്തം ചെലവ് കുറവാണ് ഏറ്റവും ചെറിയ പാതയുടെ ദൈർഘ്യം കണക്കിലെടുക്കാതെ അത്തരം പാതകൾ കണക്കുകൂട്ടുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനാൽ ഹ്രസ്വമായ പാതകളെക്കുറിച്ച് നമുക്ക് രണ്ട് തരം ചോദ്യം ചോദിക്കാൻ കഴിയും ഒന്ന് സിംഗിൾ സോഴ്സ് പാത്ത് എന്ന് വിളിക്കപ്പെടുന്നു ഒരൊറ്റ ഉറവിട ഹ്രസ്വമായ പാത്ത് പ്രശ്നത്തിൽ ഞങ്ങളുടെ എല്ലാ പാതകളും ആരംഭിക്കുന്നിടത്ത് നിന്ന് ഞങ്ങൾക്ക് ഒരു നിയുക്ത സ്ഥലമുണ്ട് മറ്റെല്ലാ പാതയിലേക്കും ഏറ്റവും കുറഞ്ഞ ദൂരം കണ്ടെത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഇതിന് വളരെ സ്വാഭാവിക ആപ്ലിക്കേഷനുണ്ട് അതിനാൽ നിങ്ങൾ ഒരു നിർമ്മാതാവാണെന്നും നിങ്ങളുടെ എല്ലാ ഇനങ്ങളും നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയുണ്ടെന്നും കരുതുക ഇപ്പോൾ നിങ്ങൾ ഈ ഇനങ്ങൾ രാജ്യമെമ്പാടും വിതരണം ചെയ്യണം അതിനാൽ നിങ്ങളുടെ ഇനങ്ങൾ ഫാക്ടറിയിൽ എത്തിക്കുന്നതിനുള്ള ഏറ്റവും ചെറിയ മാർഗം എങ്ങനെ കണ്ടെത്താം അത് ഈ സ്ഥലങ്ങളിലേക്ക് ഒരൊറ്റ പോയിന്റാണ് അത് വിൽക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ എല്ലാ റീട്ടെയിൽ out ട്ട്ലെറ്റുകളും അല്ലെങ്കിൽ നിങ്ങൾ ഒരു കൊറിയർ കമ്പനിയാകാം ഇപ്പോൾ കൊറിയർ കമ്പനി എല്ലാ ഇനങ്ങളും ഒരു നിശ്ചിത തെരുവിലേക്ക് മാറ്റും അതൊരു കേന്ദ്രീകൃത ഓഫീസായിരുന്നു ഈ കേന്ദ്രീകൃത ഓഫീസിൽ നിന്ന് നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വിതരണം ചെയ്യേണ്ടതുണ്ട് അതിനാൽ കൊറിയർ ഇനങ്ങൾ കൈമാറേണ്ട വിതരണ ഓഫീസിൽ നിന്ന് വ്യത്യസ്ത വിലാസങ്ങളിലേക്കുള്ള ഏറ്റവും ചെറിയ പാത നിങ്ങൾ എങ്ങനെ കണക്കാക്കും ഏതെങ്കിലും ജോഡി കേസുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ജോഡി വെർട്ടീസുകൾ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം കണക്കുകൂട്ടുന്നതാണ് മറ്റൊരു പ്രശ്നം അതിനാൽ നിങ്ങൾക്ക് ഒരു എയർലൈൻ അല്ലെങ്കിൽ ട്രെയിൻ നെറ്റ്വർക്കിന്റെ റൂട്ടിംഗ് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ഇത് ഒരു സ്വാഭാവിക പ്രശ്നമായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ നിന്ന് നഗരത്തിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം എ ബി എന്നിവയ്ക്കിടയിലുള്ള ഏറ്റവും ചെറിയ പാത കണക്കുകൂട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ Google മാപ്പുകൾ പോലുള്ള സേവനം നിങ്ങൾ ഉപയോഗിക്കുകയും ഒരു ഉറവിടത്തിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് നിങ്ങൾ പറയുകയും ചെയ്യുന്നുവെങ്കിൽ ലക്ഷ്യസ്ഥാനം ഇത് ഹ്രസ്വമായ പാത കണക്കുകൂട്ടാൻ ശ്രമിക്കുകയും നടത്തം അല്ലെങ്കിൽ ഡ്രൈവിംഗ് മുതലായവ നിങ്ങൾക്ക് സമയം നൽകുകയും ചെയ്യും അതിനാൽ ഞങ്ങൾക്ക് രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഞങ്ങൾക്ക് ഒരൊറ്റ ഉറവിടമുണ്ടായിരിക്കാം ഒപ്പം ആ ഉറവിടത്തിൽ നിന്നും മറ്റ് പതിപ്പിൽ നിന്നും ഓരോ ലക്ഷ്യസ്ഥാനത്തേക്കും ഏറ്റവും ചെറിയ പാത ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവിടെ ഓരോ ജോഡി വെർട്ടീസുകൾക്കും ഇടയിലുള്ള ഏറ്റവും ചെറിയ പാത കണ്ടെത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ ഒരൊറ്റ ഉറവിട ഹ്രസ്വമായ പാത്ത് പ്രശ്നം കൊണ്ട് ഞങ്ങൾ ആരംഭിക്കും അതിനാൽ ഞങ്ങൾ രൂപകൽപ്പന ചെയ്യണം അത്തരമൊരു പ്രശ്നത്തിൽ നാം നിയുക്തനാകണം എന്താണ് ആരംഭ വെർട്ടെക്സ് അതിനാൽ ഒരുപക്ഷേ നമ്മുടെ ആരംഭ ശീർഷകം നമുക്ക് ume ഹിക്കാവുന്നതേയുള്ളൂ ഇത് ശീർഷകം 1 ആണെന്ന് ഓർക്കുക നമ്മൾ സാധാരണയായി നമ്മുടെ ലംബങ്ങളെ 1 2 3 എന്ന് n വരെ വിളിക്കുന്നു അതിനാൽ ഇവിടെ നമുക്ക് 7 വെർട്ടീസുകളുള്ള ഒരു ഗ്രാഫ് ഉണ്ട് അരികുകളുടെ അരികിൽ ചുവപ്പ് നിറത്തിൽ എഡ്ജ് വെയ്റ്റുകൾ എഴുതിയിരിക്കുന്നു ഞങ്ങൾ 1 ൽ ആരംഭിച്ച് 1 മുതൽ മറ്റെല്ലാ ശീർഷകങ്ങളിലേക്കും എങ്ങനെ ചുരുങ്ങിയ ചെലവിൽ എത്തിച്ചേരാമെന്ന് കണ്ടെത്തണം ഇത് കണക്കാക്കാനുള്ള ചിട്ടയായ മാർഗം അതിനാൽ അൽഗോരിതം വിശദീകരിക്കാൻ സഹായിക്കുന്ന ഒരു സാമ്യത ഇവിടെയുണ്ട് അതിനാൽ ഓരോ ശീർഷകവും ഒരു ഓയിൽ ഡിപ്പോ ആണെന്നും എല്ലാ അരികുകളും പൈപ്പ്ലൈനുകളാണെന്നും പൈപ്പ്ലൈനുകൾ പൈപ്പ്ലൈനിന്റെ ദൈർഘ്യത്തിന്റെ വിലയാണെന്നും നമുക്ക് അനുമാനിക്കാം ഇപ്പോൾ ഈ യഥാർത്ഥ ശീർഷകത്തിന് ഞങ്ങൾ തീയിടുമ്പോൾ വെർട്ടെക്സ് 1 ആരംഭിക്കുക വെർട്ടെക്സുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ പൈപ്പുകളിലും തീ പിടിക്കും തീ ഏകീകൃത വേഗതയിൽ സഞ്ചരിക്കുന്നുവെന്ന് കരുതുക അത് ആദ്യം ഏറ്റവും ചെറിയതും ഏറ്റവും അടുത്തതുമായ ശീർഷകത്തിൽ എത്തും അതിനാൽ ആദ്യത്തെ ശീർഷകത്തിന് ശേഷം തീ പിടിക്കുന്ന ആദ്യത്തെ വെർട്ടെക്സ് ആദ്യത്തെ ഓയിൽ ഡിപ്പോ 1 ന് ഏറ്റവും അടുത്തുള്ള ഒരു ശീർഷകമാണ് തുടർന്ന് തീ പിടിക്കുന്ന രണ്ടാമത്തെ ഓയിൽ ഡിപ്പോ ഏറ്റവും അടുത്തുള്ള രണ്ടാമത്തെ വെർട്ടെക്സ് പാതയാണ് ഈ തീ അളക്കുന്നതിലൂടെ ഏകീകൃത വേഗതയിലാണ് സഞ്ചരിക്കുന്നതെന്ന് കരുതുക ഓരോ ശീർഷകത്തിലും തീ എത്തുന്ന വേഗത ഏറ്റവും ചെറിയ പാത ശാന്തമാക്കുന്നതിലൂടെ ഞങ്ങൾ അവസാനിക്കും അതിനാൽ ഈ സാമ്യത പ്രത്യേകിച്ചും ഈ തന്ത്രം നടപ്പിലാക്കാൻ ശ്രമിക്കാം അതിനാൽ ഞങ്ങൾ ഈ ഉറവിട ശീർഷകത്തിന് 0 സമയങ്ങളിൽ തീയിടാൻ തുടങ്ങുന്നു ഇപ്പോൾ ഒരു തീ എഡ്ജ് 1 3 എഡ്ജ് 1 2 എന്നിവയിലൂടെ പോകാൻ തുടങ്ങും ഇപ്പോൾ എഡ്ജ് 1 2 ചെറുതായതിനാൽ 10 യൂണിറ്റ് ടൈം വെർട്ടെക്സ് 2 കത്തുന്നു ഈ സമയത്ത് ഇവിടെ ഒരു ചെറിയ പൊള്ളൽ ഭാഗം ഉണ്ടെന്നും 1 മുതൽ 3 വരെ ഭാഗിക തീ ഉണ്ടെന്നും ഞങ്ങൾ സൂചിപ്പിച്ചു എന്നാൽ ഇത് 80 യൂണിറ്റുകളിൽ 10 എണ്ണം മാത്രമാണ് യാത്ര ചെയ്യുന്നത് എട്ടിലൊന്ന് മാത്രമാണ് 1 മുതൽ 3 വരെ യാത്ര ചെയ്തു അതിനാൽ 10 വെർട്ടെക്സ് 2 പൊള്ളലിന് തുല്യമാണ് ഇത് വെർട്ടെക്സ് 2 ലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരത്തിന്റെ ഏറ്റവും കുറഞ്ഞ ചെലവാണെന്ന് നമുക്ക് പറയാം ഇപ്പോൾ തീ 2 മുതൽ 3 വരെ 2 മുതൽ 5 വരെ രണ്ട് ദിശകളിലൂടെ 2 വഴി വ്യാപിക്കുന്നു 1 മുതൽ 3 വരെയുള്ള തീയും മുമ്പത്തെ അതേ നിരക്കിൽ തുടരും ഇപ്പോൾ 6 യൂണിറ്റ് സമയത്തിന് ശേഷം വെർട്ടെക്സ് 3 കത്തുന്നതായി നമുക്ക് കാണാം അതിനാൽ 16 ശീർഷകം 3 കത്തിക്കഴിഞ്ഞു ഇപ്പോൾ ഇതിന് 1 മുതൽ 3 വരെ തീ 16 മുതൽ 80 വരെ ദൂരം സഞ്ചരിച്ചു എന്നാൽ 2 മുതൽ 5 വരെയുള്ള തീ 6 മുതൽ 20 വരെ സഞ്ചരിച്ചു ഇപ്പോൾ സങ്കേതം 3 കത്തി പുതിയ തീ ഈ ദിശയിൽ തുടരും ഈ പഴയ തീ 1 മുതൽ 3 വരെ തുടർച്ചയായി തുടരും തീർച്ചയായും 2 മുതൽ 5 വരെ തീ മുമ്പത്തെപ്പോലെ അർത്ഥമാക്കുന്നു അതിനാൽ ഇപ്പോൾ നമ്മൾ കാണണം ഇതിൽ ഏതാണ് ആദ്യം ലക്ഷ്യസ്ഥാനം എത്തും അതിനാൽ 2 മുതൽ 5 വരെയുള്ള തീയ്ക്ക് 14 യൂണിറ്റ് സമയമുണ്ടെന്ന് കാണാം നിങ്ങൾ 5 ൽ എത്തും അത് 3 അല്ലെങ്കിൽ 4 റൂട്ടുകളല്ല അതിനാൽ നിങ്ങൾ മറ്റ് 14 യൂണിറ്റുകളും മറ്റ് 14 യൂണിറ്റ് സമയങ്ങളും 30 ന് തുല്യമായി തുടരുകയാണെങ്കിൽ വെർട്ടെക്സ് 5 കത്തുന്നതായി ഞങ്ങൾ കാണുന്നു ഇവിടെ 70 മുതൽ 14 വരെ 3 മുതൽ 4 വരെ ഞങ്ങൾ ചെയ്തു 80 ൽ 30 എണ്ണം 1 മുതൽ 3 വരെ ഞങ്ങൾ ചെയ്തു അതിനാൽ ഈ തീകൾ ഇപ്പോഴും ഉറവിടത്തിൽ നിന്ന് അരികിലെ ആരംഭ പോയിന്റിലേക്ക് അവസാനിക്കുന്ന പോയിന്റിലേക്ക് പോകുന്നു അരികിലെ ഇപ്പോൾ ഈ രീതിയിൽ തുടരുന്നതിലൂടെ തീ ഇപ്പോൾ 5 മുതൽ 6 7 വരെ വ്യാപിക്കുന്നു കൂടാതെ 10 യൂണിറ്റ് സമയത്തിനുള്ളിൽ 7 പൊള്ളലേറ്റ ശീർഷകം നമുക്ക് കാണാം ഇപ്പോൾ 7 മുതൽ 6 വരെ പുതിയ തീ ആരംഭിക്കുന്നത് 5 മുതൽ 6 വരെ വരുന്ന ഒരു പഴയ തീയാണ് പക്ഷേ ഇത് അതിനെ മറികടക്കും കാരണം ഇത് 10 മുതൽ 50 വരെ മാത്രമേ ചെയ്യൂ അതിനാൽ ഇനിയും 40 യൂണിറ്റ് സമയമുണ്ട് തീ 5 ൽ നിന്ന് 6 ൽ എത്തുന്നതിനുമുമ്പ് പോകുക എന്നാൽ 5 യൂണിറ്റ് സമയത്തിനുള്ളിൽ അത് 7 ൽ നിന്ന് എത്തും അതിനാൽ 45 ന് തുല്യമായി 6 ശീർഷകം കത്തുന്നതായി നിങ്ങൾ കണ്ടെത്തും ഇപ്പോൾ കത്തിക്കാനുള്ള ഒരേയൊരു ലംബങ്ങൾ യഥാർത്ഥത്തിൽ 3 ഉം 4 ഉം ആണ് അതിനാൽ ഈ ഘട്ടത്തിൽ ഞങ്ങൾ തുടരുന്നു 86 ന് തുല്യമായി യഥാർത്ഥത്തിൽ ക്ഷമിക്കണം വെർട്ടെക്സ് 3 ഇതിനകം തന്നെ ആ തീയിൽ കത്തിച്ചത് വെർട്ടെക്സിൽ എത്തിയില്ല 3 പക്ഷേ നിങ്ങളുടെ തീപ്പൊള്ളലേ അവശേഷിക്കുന്നുള്ളൂ 4 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അത് 86 ആണ് അതായത് തീപിടിത്തത്തിന് ശേഷം 70 യൂണിറ്റ് തീയുടെ അരികിലെ ഭിക്ഷാടനത്തിന് ശേഷം അത് ഒടുവിൽ എത്തുന്നു ഇപ്പോൾ എല്ലാം കത്തിക്കഴിഞ്ഞു പ്രാരംഭ അഗ്നിയിൽ എത്താൻ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഓരോ ശീർഷകത്തെയും ഞങ്ങൾ ഇപ്പോൾ ലേബൽ ചെയ്തിട്ടുണ്ട് ഇത് ആരംഭ വെർട്ടെക്സ് പാതയിൽ നിന്ന് വെർട്ടെക്സിൽ എത്തുന്നതിനുള്ള ഏറ്റവും ചെറിയ പാതയാണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നു അതിനാൽ ഞങ്ങൾ വിവരിക്കുന്ന ഈ കത്തുന്ന പ്രക്രിയയെ യഥാർത്ഥത്തിൽ എങ്ങനെ കണക്കാക്കുമെന്ന് നോക്കാം അതിനാൽ നമ്മൾ ചെയ്യുന്നത് ഓരോ ശീർഷകവുമായും സമയത്തെ ഏറ്റവും കുറഞ്ഞ ദൂരവുമായി ബന്ധപ്പെടുത്തുന്നു തുടക്കത്തിൽ നമുക്ക് എന്തും അറിയാം അതിനാൽ ശീർഷകം എത്തിച്ചേരാനാകില്ലെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു അതാണ് ഓരോ ശീർഷകത്തിന്റെയും ഏറ്റവും ചുരുങ്ങിയ ചെലവ് അനന്തത ഇപ്പോൾ വെർട്ടെക്സ് 0 വെർട്ടെക്സ് 1 സ്റ്റാർട്ട് വെർട്ടെക്സ് എപ്പോൾ വേണമെങ്കിലും എത്തിച്ചേരാനാകുമെന്ന് നമുക്കറിയാം അതിനാൽ അതിന്റെ വില 0 ആയി ഞങ്ങൾ നിർണ്ണയിക്കുന്നു അത് 0 ആയിരിക്കേണ്ടതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ വീണ്ടും കംപ്യൂട്ട് ചെയ്യാം ഇത് നിങ്ങൾക്ക് 1 ലൂടെ എത്തിച്ചേരാനാകുന്ന ഏറ്റവും കുറഞ്ഞ ചെലവായി അയൽവാസികളുടെ ചിലവാണ് ഇതിനകം തന്നെ ഞങ്ങൾ ചിലവാകും അതിനാൽ 1 മുതൽ 3 വരെ നമുക്ക് പോകാം നമുക്ക് അറിയാവുന്ന 80 സമയം ഇപ്പോൾ അനന്തമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ അനന്തതയെ 80 ആക്കി ഉയർത്താമെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ നമുക്ക് 2 മുതൽ 10 വരെ അനന്തത മെച്ചപ്പെടുത്താൻ കഴിയും അതിനാൽ ഈ പ്രക്രിയയിൽ ഞങ്ങൾക്ക് രണ്ട് അപ്ഡേറ്റുകൾ ലഭിക്കുന്നു ഇപ്പോൾ മറ്റെല്ലാ വെർട്ടീസുകളും ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല അവ എങ്ങനെ എത്തിച്ചേരാം അതിനാൽ അവ മാറില്ല ഇപ്പോൾ ഈ 2 ൽ 10 80 നെക്കാൾ ചെറുതാണെന്ന് കണ്ടെത്തിയാൽ 10 ഇപ്പോൾ അവയ്ക്ക് ഒരു ചെറിയ ഭാഗമാകാൻ കഴിയില്ല അതിനാൽ 10 കത്തിച്ചതായി ഞങ്ങൾ പറയുന്നു അത് വീണ്ടും അയൽക്കാരനാണെന്ന് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു അതിനാൽ വെർട്ടെക്സ് 2 സമയം 10 ന് കത്തുന്നുവെന്ന് ഞങ്ങൾ പറയുന്നു ഇപ്പോൾ ഇത് 10 ആം സമയത്ത് കത്തുന്നതിനാൽ ചെലവ് 3 ആയി ചുരുങ്ങിയത് 10 പ്ലസ് 6 16 അല്ലെങ്കിൽ 18 ആയി അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും അത് 16 ആണ് ഇപ്പോൾ നമുക്ക് 5 പുന reset സജ്ജമാക്കാം അനന്തതയിൽ നിന്ന് 10 പ്ലസ് 20 ലേക്ക് 30 ആണ് അതിനാൽ ഞങ്ങൾ ഈ രീതിയിൽ തുടരുന്നു ഇപ്പോൾ കത്തിക്കാൻ പോകുന്ന ഇവയിൽ 3 എണ്ണം 16 ൽ കത്തുന്നു 5 എണ്ണം 30 കത്തിക്കാൻ പോകുന്നു എന്ന വസ്തുത ഉപയോഗിച്ച് 3 ബേൺ ചെയ്യുന്നുവെന്ന് വ്യക്തമാണ് അടുത്തത് അതിനാൽ ഞങ്ങൾ പുന reset സജ്ജമാക്കുന്നത് അത് കത്തിക്കാനുള്ള നിലയാണ് ഞങ്ങൾ അത് അയൽക്കാരായ 4 മുതൽ 16 വരെ പ്ലസ് 70 ആണ് 86 ആണ് ഇപ്പോൾ കത്തിക്കാത്തവയിൽ 4 5 എന്നിങ്ങനെ പരിമിതമായ മൂല്യമുള്ള 5 എണ്ണം അടുത്തതായി കത്തിക്കും അതിനാൽ ഞങ്ങൾ അതിന്റെ സ്റ്റാറ്റസ് ബേൺ സജ്ജമാക്കി അത് 80 40 എന്നിങ്ങനെ അയൽക്കാരാണെന്ന് ഞങ്ങൾ അപ്ഡേറ്റുചെയ്യുന്നു 6 ന് ഞങ്ങൾക്ക് 80 ഉം 7 ന് ഞങ്ങൾക്ക് 40 ഉം ഇപ്പോൾ 7 ബേൺസും ഉണ്ട് അതിനാൽ ഇപ്പോൾ 7 ൽ നിന്ന് പുറത്തുപോകുന്ന ചെലവ് ഞങ്ങൾ നോക്കുന്നു 86 നെ 45 കൊണ്ട് മാറ്റിസ്ഥാപിക്കുന്നു ഇപ്പോൾ 45 അടുത്തത് അടുത്തത് 45 ന് 6 പൊള്ളൽ അതിനാൽ ഞങ്ങൾ അത് കത്തിച്ചതായി അടയാളപ്പെടുത്തുന്നു ഒടുവിൽ നിങ്ങൾ 4 ബേൺ 86 എന്ന് അടയാളപ്പെടുത്തുന്നു അതിനാൽ ഇത് ഒരു അൽഗോരിതം ആയി write ദ്യോഗികമായി എഴുതുന്നതിന് പൊള്ളലേറ്റതിനെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ ഞങ്ങൾ പരിപാലിക്കുന്നു പക്ഷേ വെർട്ടീസുകളും സമയവും രണ്ട് വ്യത്യസ്ത അറേകളിൽ ഒരു ശീർഷകം കത്തിക്കാൻ എടുക്കും ഞങ്ങൾക്ക് ബേൺഡ് വെർട്ടീസസ് എന്ന് വിളിക്കുന്ന ഒരു അറേ ഉണ്ട് അത് ബൂളിയൻ വെർട്ടെക്സ് ഒരു ബൂലിയൻ അറേ ആണ് അതിനാൽ ഒരു ശീർഷകം വെർട്ടീസുകൾ കത്തിച്ചിട്ടുണ്ടോ എന്ന് ഇത് നമ്മോട് പറയുന്നു തുടർന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ബേൺ ടൈം അറേ ഉണ്ട് ഇത് വെർട്ടെക്സ് എരിയുമെന്ന് വിശ്വസിക്കുന്ന സമയത്തെ പറയുന്നു അതിനാൽ തുടക്കത്തിൽ ഒരു ശീർഷകവും കത്തിക്കില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു അതിനാൽ എല്ലാ വെർട്ടീസുകളും കത്തിയ മൂല്യം തെറ്റാണെന്ന് ഞങ്ങൾ പറഞ്ഞു തുടക്കത്തിൽ ഓരോ ശീർഷകത്തിനും അനന്തതയിലേക്കുള്ള പ്രതീക്ഷിത സമയം ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ അനന്തത എന്നത് കണക്കാക്കാൻ പ്രയാസമുള്ള ഒരു ആശയമാണ് പക്ഷേ ഒരു ശീർഷകവും അകലെയാകാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്ക് എളുപ്പത്തിൽ പരിശോധിക്കാൻ കഴിയും ഇത് ഗ്രാഫ് പ്ലസ് 1 ലെ എല്ലാ ചെലവുകളുടെയും ആകെത്തേക്കാൾ വലുതാണ് കാരണം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വളരെ കുറച്ച് അരികുകൾ പോലും എടുക്കുന്ന ഏറ്റവും ചെറിയ പാതയാണ് പക്ഷേ പരമാവധി നിങ്ങൾക്ക് എല്ലാ അരികുകളും ഉപയോഗിക്കാം രണ്ടുതവണ എഡ്ജ് ഉപയോഗിക്കുന്നതിൽ അർത്ഥമില്ല പരമാവധി നിങ്ങൾക്ക് ഓരോ അരികും ഒരു തവണ ഉപയോഗിക്കാം അതിനാൽ നിങ്ങൾ ഗ്രാഫിലെ എല്ലാ വിലയും ചേർത്ത് അതിലൊന്ന് ചേർക്കുകയും പിന്നീട് ഇത് തീർച്ചയായും അനന്തമായി കണക്കാക്കുകയും ചെയ്യും യഥാർത്ഥ വിലയൊന്നും ഈ വിലയേക്കാൾ വലുതായിരിക്കില്ല അതിനാൽ നമുക്ക് അനന്തത ഉപയോഗിക്കാം പക്ഷേ അവ അനന്തമാണ് ഒരു ദൃ strategy മായ തന്ത്രമുണ്ട് അത് ഒരു അനന്തതയോടെ നിയോഗിക്കപ്പെട്ടു ഇപ്പോൾ ആരംഭ സോഴ്സ് വെർട്ടെക്സിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് 1 എന്ന് 6 എന്ന് പറയുന്നു അത് ബേൺ സമയം 1 ആണ് ഇപ്പോൾ ഞങ്ങൾ ആവർത്തിച്ച് പ്രതീക്ഷിക്കുന്ന ഏറ്റവും ചെറിയ പൊള്ളൽ സമയം നോക്കുന്നു അടുത്തത് കത്തിക്കുകയും പ്രതീക്ഷിക്കുന്ന ബേൺ സമയം പുന reset സജ്ജമാക്കുകയും ചെയ്യുന്നു ഈ ശീർഷകത്തിലൂടെ ആ അയൽക്കാരന്റെ നിലവിലെ ബേൺ സമയത്തെയും അതിന്റെ ഏറ്റവും കുറഞ്ഞ സമയത്തെയും ബേൺ സമയത്തിന്റെ മൂല്യത്തെയും അടിസ്ഥാനമാക്കി അതിനാൽ ഇത് വളരെ ലളിതമായ അൽഗോരിതം ആണ് അതിനാൽ ഇവിടെ ഇത് സ്യൂഡോ കോഡിലാണ് അതിനാൽ ഈ രണ്ട് വെർട്ടീസുകളും കത്തിയ വെർട്ടെക്സ് അറേ ഉണ്ട് കൂടാതെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ബേൺ ടൈം അറേകളുമുണ്ട് അതിനാൽ കരിഞ്ഞ വെർട്ടെക്സിനെ തെറ്റായതും പ്രതീക്ഷിക്കുന്ന ബേൺ സമയവും ഞങ്ങൾ ആരംഭിക്കുന്നു ഇപ്പോൾ ഉറവിട വെർട്ടെക്സ് ബേൺ സമയം 0 ആയിരിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യാത്ത ഏറ്റവും ചെറിയ വെർട്ടെക്സ് തിരഞ്ഞെടുക്കുന്നു അതിനാൽ ഞങ്ങൾ നിങ്ങൾക്കായി തിരയുന്നു അത് കത്തിക്കാത്തതും എങ്ങനെയാണ് ബേൺ സമയം പ്രതീക്ഷിക്കുന്നതും അത് കത്തിച്ചുകളയുക കൂടാതെ ഓരോന്നിനും അയൽവാസികളിലേക്ക് പോകുകയാണ് അത് കത്തിക്കില്ല അതിനുള്ള നിലവിലെ എസ്റ്റിമേറ്റ് നിങ്ങളിലൂടെ കടന്നുപോകുന്നതിനുള്ള എസ്റ്റിമേറ്റിനേക്കാൾ വലുതാണെങ്കിൽ അതാണ് യുവിന്റെ ബേൺ സമയവും യു മുതൽ വി വരെയുള്ള വഴിയും തുടർന്ന് നിങ്ങൾ ബേൺ സമയം പുതിയ ഭാരമായി അപ്ഡേറ്റ് ചെയ്യുന്നു അതിനാൽ യഥാർത്ഥ അൽഗോരിതം ബേൺ സമയത്തിനും പ്രതീക്ഷിക്കുന്ന ബേൺ സമയത്തിനും സ്വാഭാവിക വ്യാഖ്യാനമുണ്ട് അതിനാൽ ബേൺ ഇപ്പോൾ സന്ദർശിച്ചു അതിനാൽ ഞങ്ങൾ വെർട്ടെക്സിനെക്കുറിച്ചുള്ള സന്ദർശകരായിരിക്കുമ്പോൾ ഞങ്ങൾ അത് കത്തിക്കുകയും ദൂരം പ്രതീക്ഷിക്കുന്ന ഒരു തവണ മാത്രമാണ് അതിനാൽ ഇതേ അൽഗോരിതം കൃത്യമായി തിരുത്തിയെഴുതാൻ ഞങ്ങൾക്ക് കഴിയും സന്ദർശിച്ചതിലൂടെ ബി വി മാറ്റിസ്ഥാപിച്ചു ദൂരത്തിനനുസരിച്ച് ഇബിടി ആവശ്യമാണ് അതിനാൽ അനന്തതയിലേക്കുള്ള തെറ്റായ ദൂരം സന്ദർശിച്ചുവെന്ന് ഞങ്ങൾ പറഞ്ഞു ഇതിലേക്കുള്ള പ്രാരംഭ ദൂരം ആരംഭിക്കുക ആരംഭ ശീർഷകം 0 ആണ് തുടർന്ന് സന്ദർശിക്കാത്ത ഓരോ ശീർഷകത്തിനും ഇത് പതിവായി ഉണ്ടാകും അതിനാൽ ഈ കുറഞ്ഞ ദൂരം സന്ദർശിച്ചതായി സജ്ജമാക്കി സ്വയം അപ്ഡേറ്റുചെയ്യുക ഒറ്റ ഉറവിട ഹ്രസ്വ പാതകൾക്കായുള്ള ഡിജക്സ്ട്രയുടെ അൽഗോരിതം ഇതാണ്